സർവീസ് മാർക്കറ്റിംഗ് വിത്ത് ദി പ്രാക്ടിക്കൽ അപ്രോച്ചിന്റെ Service Marketing with the practical Approach ഈ സെഷനിലേക്ക് സ്വാഗതം ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുക എന്ന അടുത്ത പാഠം നമ്പർ 22ലേക്ക് നമുക്ക് പോകാം ആന്തരിക ഉപഭോക്താക്കൾ അതായത് ആന്തരിക ജീവനക്കാർക്ക് ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ എങ്ങനെ തൃപ്തിപ്പെടാം എന്ന് നമ്മൾ ഇതിനോടകം കണ്ടു ഇപ്പോൾ ബാഹ്യ ഉപഭോക്താക്കൾ ജനങ്ങളുടെ രണ്ടാം ഭാഗമാണ് സേവനങ്ങൾ നിർമ്മിക്കുന്ന ആളുകളുടെ രണ്ടാമത്തെ ഗ്രൂപ്പ് അതിനാൽ ഉപഭോക്തൃ സഹ സേവനങ്ങളുടെ ഉത്പാദനവും ഉപഭോക്തൃ പങ്കാളിത്ത തന്ത്രങ്ങളും നമ്മൾ നോക്കുന്നു മുൻപത്തെ പാഠത്തിൽ അവസാനിപ്പിച്ചത് പോലെ സേവന ഡെലിവറി സമയത്ത് ഉപഭോക്താക്കൾ വഹിക്കുന്ന പങ്ക് നാം ചർച്ച ചെയ്യും സേവനങ്ങൾ ഒരേസമയം ജീവനക്കാരാൽ നിർമ്മിക്കപ്പെടുന്നതും ഉപഭോക്താക്കളാൽ ഉപയോഗിക്കപ്പെടുന്നതും ആണെന്ന് നിങ്ങൾ ഓർക്കും അതിനാൽ ഒരു പ്രത്യേക സേവന കേന്ദ്രത്തിൽ അവർ വഹിക്കേണ്ട പങ്ക് ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കണം ആവശ്യമെങ്കിൽ സേവന ഔട്ട്ലെറ്റ്ൽ ഉചിതമായ റോളുകൾ നിർവ്വഹിക്കുന്നതിന് അവർക്ക് വിദ്യാഭ്യാസവും പരിശീലനവും ഉണ്ടായിരിക്കണം അങ്ങനെ അവർക്ക് സേവനത്തിൻറെ പ്രയോജനം ലഭിക്കും ജീവിതം വളരുമ്പോഴാണ് മിക്ക ഉപഭോക്താക്കളും അവരുടെ റോളുകൾ പഠിക്കുന്നത് എന്നിരുന്നാലും ഒരു പുതിയ സേവന സൌകര്യത്തിൽ അവർക്ക് വഹിക്കാവുന്ന ഏറ്റവും മികച്ച പങ്ക് അവർക്ക് അറിയില്ലായിരിക്കാം ഒരു ആശുപത്രി ഫാർമസിയിൽ മരുന്നുകൾ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഉപഭോക്താക്കളുടെ കാര്യമെടുക്കുക സാധാരണഗതിയിൽ ഉപഭോക്താക്കൾ മരുന്നുകൾക്കായി അവരുടെ അപേക്ഷ സമർപ്പിക്കുകയും ഡെലിവറി കൌണ്ടറിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യും ധാരാളം ആളുകൾ അവരുടെ മരുന്നുകൾക്കായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഓരോ വ്യക്തിക്കും അവരുടെ മരുന്നുകൾ സ്വീകരിക്കാൻ ദീർഘനേരം നിൽക്കേണ്ടി വരും രോഗികൾക്ക് കാത്തിരിക്കാൻ കൌണ്ടറിനു സമീപം കുറച്ച് കസേരകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അവർ ഇരിക്കാൻ ഇടയില്ല പകരം അവരുടെ അഭ്യർത്ഥനയ്ക്ക് ഉചിതമായ മുൻഗണന ലഭിക്കുന്നുണ്ടോ എന്നും മറ്റ് ആളുകൾക്ക് അവരുടെ ഊഴത്തിനു അപ്പുറം മരുന്ന് ലഭിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കുകയും കൂടാതെ ഫാർമസി ജീവനക്കാർ അവരുടെ അലസതയിൽ നിന്ന് മരുന്നുകൾ എത്തിക്കാൻ വൈകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനായി അവർ കൌണ്ടറിനു ചുറ്റും ആകാംക്ഷയോടെ നിൽക്കുന്നതായിരിക്കും ഈയൊരു സാഹചര്യം മിക്ക ആശുപത്രി ഫാർമസികളിലും സാധാരണയായി കാണാറുണ്ട് എന്തുകൊണ്ടാണ് ഉപഭോക്താവ് ഉത്കണ്ഠയോടെ നിൽക്കുന്നതിനു പകരം ഇരിക്കാൻ തെരഞ്ഞെടുക്കാത്തത് ഒരു കാരണം അവർ അങ്ങനെ ചെയ്യാൻ ഉപദേശിക്കപെട്ടിട്ടില്ല എന്നതാണ് ഉചിതമായ പോസ്റ്ററുകളിലൂടെ അവരെ ഇരിക്കാൻ ഉപദേശിക്കുമ്പോൾ ഫാർമസി ജീവനക്കാർ അവരുടെ മരുന്ന് അഭ്യർത്ഥന എത്രയും വേഗം നിറവേറ്റാൻ ശ്രമിക്കുന്നു എന്ന് അവർ തിരിച്ചറിയുമ്പോൾ ഡെലിവറി കൌണ്ടറിന് ചുറ്റും തിങ്ങിനിറയുന്നതിനുപകരം ഉപഭോക്താക്കൾ ഇരുന്ന് വിശ്രമിക്കുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യും ഉൽക്കണ്ഠയോടെ നിൽക്കുന്നതിനു പകരം ക്ഷമയോടെ ഇരിക്കുന്നതിനാൽ ഇത് ഉപഭോക്തൃ സംതൃപ്തി വർദ്ധിപ്പിക്കും ഈ സാഹചര്യത്തിൽ ഉചിതമായ ആശയവിനിമയവും ജീവനക്കാരുടെ പരിശീലനവും ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകാൻ സഹായിക്കും ഈ രീതിയിൽ ഉപഭോക്താക്കൾക്ക് അവരുടെ സേവനങ്ങൾ മികച്ച രീതിയിൽ സ്വീകരിക്കാൻ വിദ്യാഭ്യാസവും പരിശീലനവും സഹായകമാകും ഈ രീതിയിൽ ഉപഭോക്താക്കൾ കൂടുതൽ സംതൃപ്തരാവും അതിനാൽ ഉപഭോക്തൃ വിദ്യാഭ്യാസം സേവന ഡെലിവറിയുടെ ഒരു പ്രധാന വശമാണ് നേരത്തെ ചർച്ച ചെയ്തത് പോലെ സേവന ഉൽപ്പാദനവും ഉപഭോഗവും ഒരേ സമയം നടക്കുന്നതിനാൽ ഉൽപ്പന്നങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉപഭോക്താക്കൾ സേവന ഉൽപാദനത്തിൽ കൂടുതൽ ഇടപെടുന്നു സേവന ഫലത്തിൻറെ സഹോൽപ്പാദനത്തിൻറെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവരെ അനുവദിക്കുമ്പോൾ ഉപഭോക്താക്കൾ സാധാരണയായി സേവനത്തിൻറെ ഫലത്തിൽ കൂടുതൽ സംതൃപ്തരാണെന്നും ഈ ഫലം പ്രതീക്ഷിച്ചതിലും മികച്ചതാകുമ്പോൾ സ്വയം ക്രെഡിറ്റ് എടുക്കുകയും ഫലം പ്രതീക്ഷിച്ചതിലും മോശമാകുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യുമെന്നും ഗവേഷണ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ചില ഉപഭോക്താക്കൾ ഒരു സേവനത്തിൻറെ സഹ ഉൽപാദന കർമ്മത്തിൽ പങ്കെടുക്കാനും സേവന ദാതാവിൽ നിന്ന് പൂർണ സേവനം പ്രതീക്ഷിക്കുകയും അതിനായി പണം നൽകുകയും ചെയ്യാനും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും മറ്റുള്ളവർ യഥാർത്ഥത്തിൽ സ്വയം ഒരു നല്ല തുക ഉൽപ്പാദിപ്പിക്കുന്നത് ആസ്വദിച്ചേക്കാം പ്രത്യേകിച്ചും അത് അവർക്ക് മൂല്യം ചേർക്കുമ്പോൾ ഉദാഹരണത്തിന് ഇൻറർനെറ്റ് ആക്സസ് ഉള്ള പല ഉപഭോക്താക്കളും അവരുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അവരുടെ ബാങ്കിംഗ് ടിക്കറ്റിംഗ് ജോലികൾ ചെയ്യുന്നത് ആസ്വാദ്യകരവും പ്രയോജനകരവുമായി കണക്കാക്കുന്നു ആ സേവനങ്ങൾക്കായി സേവനദാതാക്കളുടെ ഓഫീസുകൾ അപൂർവമായി സന്ദർശികുന്നു കൊ പ്രൊഡക്ഷൻ തുടർച്ചയിൽ ഉപഭോക്താക്കളുടെ നിരവധി വിഭാഗങ്ങൾ ഉണ്ടാകാം എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം 1998ൽ മ്യൂട്ടറൂം ബിറ്റ്നറും തിരിച്ചറിഞ്ഞതുപോലെ സഹോൽപാദന തുടർച്ച അടുത്തതായി കാണിക്കുന്നു അങ്ങനെ ആറ് ഉപഭോത്യ വിഭാഗങ്ങൾ സേവനത്തിൻറെ സഹോത്പാദനത്തിനുള്ള സന്നദ്ധതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചില സെഗ്മെന്റുകൾ പൂർണ്ണ സേവനങ്ങൾ ആവശ്യപ്പെടും മറ്റുള്ളവ സേവനങ്ങൾ വിഭജിക്കുകയും ഒടുവിൽ ചിലത് പൂർണമായ സ്വയം സേവനങ്ങൾ ആസ്വദിക്കുകയും ചെയ്യും മേൽപ്പറഞ്ഞ കേസിൽ കമ്പനിയുടെ ഓറിയൻറേഷൻ എന്തായിരിക്കണം നാം ഇപ്പോൾ ശരിയായി മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഒരു ഉപഭോക്താധിഷ്ഠിത കമ്പനി ഓരോ ഉപഭോക്ത്യ വിഭാഗത്തിനും ആ വിഭാഗം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നൽകുകയും ഓരോ കേസിലും വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങൾക്ക് വില നൽകുകയും ചെയ്യും ഉപഭോക്താക്കൾക്ക് അവർ ആഗ്രഹിക്കുന്നതെന്തും ലളിതമായി ലഭിക്കുമെന്നതിനാൽ അത് അവർക്ക് ഏറ്റവും സംതൃപ്തി നൽകും ഉപഭോക്തൃ സഹോൽപാദന തുടർച്ച കാണിക്കുന്ന ചിത്രത്തിലേക്ക് നമുക്ക് നോക്കാം അപ്പോൾ സേവനങ്ങളുടെ ഉപഭോക്തൃ കൊ പ്രൊഡക്ഷൻ അതിനാൽ ഓറഞ്ച് ലൈൻ ആദ്യ തരം മുതൽ ആറാമത്തെ തരം കൊ പ്രൊഡക്ഷൻ വരെയുള്ള തുടർച്ചയായി നിങ്ങൾ കാണും അതിനാൽ ഇവിടെ ആദ്യത്തേതിൽ ഉപഭോക്തൃ ഉത്പാദനമോ സ്വയം സേവനമോ ഉണ്ട് അതിനാൽ ഉപഭോക്താവ് എണ്ണ പമ്പു ചെയ്യുകയും കാർഡ് ഉപയോഗിച്ച് പമ്പിലെ പണം സ്വയമേവ അടക്കുകയും ചെയ്യും അവസാനത്തേത് പൂർണ സേവനം ഉള്ള കമ്പനി നിർമ്മാണമാണ് അവിടെ അറ്റന്റന്റ് വന്ന് പമ്പു ചെയ്യുകയും ഉപഭോക്താവിൽ നിന്ന് പെയ്മെൻറ് എടുക്കുകയും ചെയ്യുന്നു അതിനാൽ കമ്പനി നൽകുന്ന പൂർണ സേവനം ആണിത് ഇത് ഉപഭോക്താവ് ചെയ്യുന്ന സ്വയം സേവനം അതിനാൽ ഇവിടെ ഉപഭോക്താവ് സേവനം ഉത്പാദിപ്പിക്കുന്നു എന്നാൽ ഇവിടെ കമ്പനിയാണ് അതിൻറെ സേവനം ഉൽപാദിപ്പിക്കുന്നത് ഇതിൻറെ ഇടയ്ക്ക് നാല് ഘടകങ്ങൾ കൂടി ഉണ്ട് അതിനാൽ രണ്ടാമത്തെ കാര്യം ഉപഭോക്താവ് എണ്ണ പമ്പു ചെയ്യുകയും സ്റ്റേഷന് അകത്ത് പണമടക്കുകയും ചെയ്യുന്നു അടുത്തത് ഉപഭോക്താവ് എണ്ണ പമ്പ് ചെയ്യുകയും അറ്റൻഡന്റ് പെയ്മെൻറ് എടുക്കുകയും ചെയ്യുന്നു നാലാമത്തേത് അറ്റൻഡന്റ് എണ്ണ പമ്പ് ചെയ്യുകയും ഉപഭോക്താവ് കാർഡ് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായി പണമടയ്ക്കുകയും ചെയ്യുന്നു തുടർന്ന് അറ്റൻഡന്റ് എണ്ണ പമ്പ് ചെയ്യുകയും ഉപഭോക്താവ് സ്റ്റേഷനിലേക്ക് പണമടയ്ക്കാൻ സ്റ്റേഷനിലേക്ക് അകത്തേയ്ക്ക് പോകുന്നു അവസാനം കമ്പനി ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ സേവനവും ഉണ്ട് അതിനാൽ ഇതാണ് ഉപഭോക്തൃ സഹോൽപാദന തുടർച്ച സേവനത്തിലെ സഹോൽപാദന പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ ഈ പാഠത്തിൽ പരിചയപ്പെടുകയും ചർച്ച ചെയ്യുകയും ചെയ്തു അടുത്ത പാഠത്തിൽ വിവിധ ഉപഭോക്തൃ പങ്കാളിത്ത തന്ത്രങ്ങൾ നാം ചർച്ച ചെയ്യും അതിനാൽ ഉപഭോക്തൃ പങ്കാളിത്ത തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ഉപഭോക്തൃ ജോലികൾ നിർവചിക്കുക ഉപഭോക്താക്കളെ പഠിപ്പിക്കുക പരിശീലിപ്പിക്കുക പ്രതിഫലം നൽകുക അനുയോജ്യതയ്ക്കായി ഉപഭോക്തൃ മിശ്രിതം നിയന്ത്രിക്കുക എന്നിവയാണ് അതിനാൽ നമ്മുടെ ടാർഗറ്റ് ഉപഭോക്തൃ വിഭാഗത്തിൻറെ പങ്കാളിത്ത മുൻഗണനകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയുന്ന ഖണ്ഡികകളിൽ ചർച്ച ചെയ്യുന്നത് പോലെ വിവിധ ഉപഭോക്തൃ പങ്കാളിത്ത തന്ത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാനാവും ഉപഭോക്തൃ ജോലികൾ നിർവചിക്കുക ഉപഭോക്തൃ പങ്കാളിത്തം ഉപഭോക്താവിൻറെ പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുക്കരുത് അല്ലെങ്കിൽ ഗുണനിലവാരവും ഉത്പാദനക്ഷമതയും സേവനത്തോടുള്ള ഉപഭോക്തൃ ധാരണയും സംതൃപ്തിയും പ്രതികൂലമായി ബാധിച്ചേക്കാം അതനുസരിച്ച് സേവന ഡെലിവറി പ്രക്രിയയ്ക്കായി ഉപഭോക്തൃ റോളുകൾ ശ്രദ്ധാപൂർവ്വം രൂപകൽപ്പന ചെയ്തിരിക്കണം കസ്റ്റമർ റോളുകളിൽ ജിഞ്ചർ ഹോട്ടലുകളുടെ കാര്യത്തിൽ എന്നതുപോലെ സ്വയം സഹായിക്കുക അല്ലെങ്കിൽ അംഗങ്ങൾ പരസ്പരം സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആൽക്കഹോളിക് അനോണിമസ്കളുടെ കാര്യത്തിലെന്നപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നതും ഉൾപ്പെടുന്നു ഇൻസെൻറ്റീവ്കൾക്കുള്ള റിട്ടേണിൽ കമ്പനിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉപഭോക്താക്കളെയും റിക്രൂട്ട് ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് കമ്പനികൾക്ക് അവരുടെ വാർഷികത്തിൽ ഉപഭോക്താക്കൾക്ക് ഡിസ്കോയിലേക്ക് സൌജന്യ പാസ്സുകൾ അനുവദിക്കുകയും അവരുടെ ചില സുഹൃത്തുക്കളെ സൌജന്യമായി കൊണ്ടുവരാൻ അഭ്യർഥിക്കുകയും ചെയ്യാം ഈ കാര്യത്തിൽ നിന്ന് കമ്പനി ഇപ്പോൾ അധിക ഉപഭോക്താക്കളെ നേടുന്നു ഉപഭോക്തൃ റഫറലുകളുടെ സമാനമായ ഉദ്യമങ്ങൾക്ക് രണ്ടു തരത്തിലുള്ള നേട്ടങ്ങളുണ്ട് കമ്പനി പുതിയ ഉപഭോക്താക്കളെ നേടുകയും ഉപഭോക്താക്കൾ കമ്പനിയുമായി ചേർന്ന് നിൽക്കുകയും പ്രതിഫലം സ്വന്തമാക്കാൻ അതുമായി ബന്ധപ്പെട്ട മനോഹരമായ അനുഭവങ്ങൾ ഓർക്കുകയും ചെയ്യുന്നു റോളുകൾ ഉറപ്പുവരുത്തിയാൽ ഉപഭോക്താവിനും കമ്പനിക്കും ലഭിക്കുന്ന നേട്ടങ്ങൾ ഉറപ്പുവരുത്താൻ ആകും വിലയേറിയ സമയം ലഭിക്കുന്നതും ക്യൂവിൽ കാത്തിരിക്കുന്നതിൻറെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതും ഉപഭോക്താക്കൾക്ക് ഒരു സേവനം നിർമ്മിക്കുമ്പോൾ പൊതുവായി ലഭിക്കുന്ന ഒരു നേട്ടമാണ് ഈ ഘട്ടത്തിൽ ലാഭിച്ച വേതനം മുതലായവയുടെ ആനുകൂല്യത്തിൻറെ ഏത് ഭാഗം ഉപഭോക്താവിന് കൈമാറാൻ കഴിയുമെന്നും കമ്പനിക്ക് ഉറപ്പിക്കാം അടുത്തതായി ഉപഭോക്താക്കളെ പഠിപ്പിക്കുക പരിശീലിപ്പിക്കുക പ്രതിഫലം നൽകുക ഇപ്പോൾ കമ്പനി ഉപഭോക്താക്കളെ അവരുടെ റോളുകൾ ഫലപ്രദമായും കാര്യക്ഷമമായി നിർവഹിക്കാൻ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും വേണം നേരത്തെ സൂചിപ്പിച്ചതു പോലെ ഉപഭോക്താക്കളുടെ മികച്ച ഉൽപ്പാദനക്ഷമതയും ഗുണനിലവാരവും സംതൃപ്തിയും ഉറപ്പാക്കുന്നതിന് ഈ ഘട്ടം വളരെ പ്രധാനമാണ് ഈ ഘട്ടത്തിൽ ഉപഭോക്തൃ സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും ഉപഭോക്താവിനെ പരിശീലിപ്പിക്കുന്ന രീതി തയ്യാറാക്കുകയും ചെയ്യുന്നു പുകവലി എത്തിച്ചേരുന്ന സമയം മുതലായവയുമായി ബന്ധപ്പെട്ട ഉചിതമായ പെരുമാറ്റച്ചട്ടങ്ങൾ ഉപഭോക്താക്കൾക്കായി സ്ഥാപിക്കുകയും ഉപഭോക്താക്കൾക്ക് അവയെ അംഗീകരിക്കാനും അനുസരിക്കാനും കഴിയുന്ന തരത്തിൽ ആശയവിനിമയം ആസൂത്രണം ചെയ്തിരിക്കുകയും വേണം ഉദാഹരണത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടിഎം സേവനങ്ങൾ ആരംഭിച്ചപ്പോൾ അതിൻറെ ജീവനക്കാർ എടിഎം എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്ന് കാണിക്കാൻ പ്രായമായ ഉപഭോക്താക്കളുമായി പോയി ഈ സൌകര്യം ഉപയോഗിക്കുന്നതിൻറെ ഗുണങ്ങളും പ്രതിഫലങ്ങളും അവരെ അറിയിച്ചു പല കാരണങ്ങളാൽ ഉപഭോക്താക്കൾക്ക് അവരുടെ സ്വയം സേവനം പരാജയപ്പെട്ടാൽ സഹായം തേടാൻ ഹെൽപ്പ്ലൈൻ നമ്പറുകളും നൽകിയിട്ടുണ്ട് ഈ പ്രക്രിയ ഉപഭോക്താക്കളുടെ ഉൽക്കണ്ഠ കുറയ്ക്കാനും അവർക്ക് ആശ്വാസവും സുരക്ഷിതത്വവും ആത്മവിശ്വാസവും പ്രക്രിയകളിൽ നിയന്ത്രണവും നൽകുകയും ചെയ്യും മൂന്നാമതായി അനുയോജ്യതയ്ക്കായി ഉപഭോക്തൃ മിശ്രിതം നിയന്ത്രിക്കുക ഉപഭോക്താക്കളുടെ വ്യത്യസ്ത വിഭാഗം നമ്മുടെ സേവനങ്ങൾ സ്വീകരിക്കുമ്പോൾ അവ അനുയോജ്യതക്കായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് സെഗ്മെന്റുകൾ ഭൌതികമായി വേർതിരിച്ച് അവരുടെ അഭിരുചിക്കനുസരിച്ച് സർവീസസ്കേപ്പ് രൂപകൽപന ചെയ്യുക എന്നതാണ് ഏറ്റവും എളുപ്പമുള്ള രീതി സെഗ്മെന്റുകൾക്ക് സൌകര്യപ്രദമായ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സെഗ്മെന്റുകൾ വിളിക്കുക എന്നതാണ് മറ്റൊരു രീതി സേവനദാതാവുമായി ഉപഭോക്തൃ വിഭാഗത്തിന് വ്യക്തിത്വ സവിശേഷതകളുമായി പൊരുത്തപ്പെടുന്ന തരത്തിലുള്ള സേവന ഉദ്യോഗസ്ഥരെ പോലും തിരഞ്ഞെടുക്കാൻ ആവും ഒരു ബസ്സിലോ വിമാനത്തിലോ ഉള്ളതുപോലെ നിരവധി ഉപഭോക്താക്കൾ ഒരേ സൌകര്യം പരസ്പരം അടുത്തു പങ്കെടുക്കേണ്ടി വരുമ്പോൾ കോംബാറ്റ്ബിലിറ്റി മാനേജ്മെൻറ് പ്രത്യേകിച്ചും ബുദ്ധിമുട്ട് ആയേക്കാം അത്തരം സന്ദർഭങ്ങളിൽ ഉപഭോക്താക്കൾക്ക് പെരുമാറ്റച്ചട്ടം രൂപപ്പെടുത്തുന്നത് പ്രയോജനകരമാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് സംവേദനക്ഷമതയുള്ളവരായിരിക്കാൻ അവരെ പരിശീലിപ്പിക്കുന്നത് സുഗമമായ സേവന അനുഭവം ലഭിക്കുന്നതിന് ഉപഭോക്താക്കളെ സഹായിക്കും അടുത്ത പാഠത്തിൽ സേവന വിതരണ ചാനലുകൾ മാനേജ് ചെയ്യുന്നത് നമ്മൾ നോക്കും ഈ പാഠം കണ്ടതിനു നന്ദി ഇത് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു